ആദ്യമായി എല്ലാവരെയും ഈ കോഴ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ മെഷർമെൻറ് മെട്രോളജി എന്ന സബ്ജക്ട് ആണ് പഠിക്കുവാൻ ആരംഭിക്കുന്നത് അളവുകൾ എന്നത് വളരെ പ്രാധാന്യം ഉള്ള ഒരു ഭാഗമാണ് എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ ഇന്ന് അളവുകൾ കൂടുതൽ സങ്കീർണമായിട്ടുള്ളതാണ് അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നാമതായി പാർട്ടുകൾ വളരെ ചെറിയ വലുപ്പത്തിലുള്ളതായി അതുപോലെ രണ്ടാമതായി നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ സങ്കീർണമായ ആകാരത്തിൽ ഉള്ളതായും കാണാം അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ ഒരു ഉൽപ്പന്നമോ അതിൻറെ ഭാഗങ്ങളോ നിർമ്മിക്കാൻ ആലോചിക്കുക ആണെങ്കിൽ ആദ്യമായി നമ്മൾ ഉറപ്പുവരുത്തേണ്ട കാര്യം ആ വസ്തുവിനെ നമ്മൾക്ക് പൂർണമായി അളക്കാനും മൂല്യനിർണയം നടത്താനും സാധിക്കുമോ എന്നതാണ് അല്ലാതെ നമ്മൾ എന്തെങ്കിലും മനസ്സിൽ ചിന്തിച്ച് ഒരു പേപ്പറിൽ വരച്ചു കഴിഞ്ഞാൽ അത് നിർമ്മിക്കാൻ സാധിക്കുകയില്ല അതുകൊണ്ട് അളവുകൾ എടുക്കാൻ കഴിയുക എന്നത് വളരെ പ്രാധാന്യം ഉള്ള ഒരു കാര്യമാണ് മുൻപ് ഉപകരണങ്ങൾ വസ്തുവിൽ മുട്ടിച്ചു കൊണ്ടായിരുന്നു അളവുകൾ എടുത്തിരുന്നത് ഇന്നിപ്പോൾ പുതുതായിട്ടുള്ള ഉപകരണങ്ങൾക്ക് വസ്തുവിൽ തൊടാതെ തന്നെ അളവുകൾ എൻജിനീയറിനെയോ ബന്ധപ്പെട്ട ആളുകളെയോ അറിയിക്കാൻ പ്രാപ്തമായിട്ടുള്ളതാണ് നേരത്തെ പറഞ്ഞത് പോലെ ഇന്നുള്ള നിർമ്മാണമേഖലകളിൽ അളവുകൾ എന്നത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ് അതുകൊണ്ട് നല്ല രീതിയിലുള്ള മെഷർമെൻറ് ഇല്ലാതെ കാര്യക്ഷമമായ ഒരു ഉൽപന്നം നിർമ്മിക്കുന്നതിനോ ഉൽപ്പന്നം നിർമ്മിക്കുന്നതിനുള്ള പ്രക്രിയയോ ചെയ്യാൻ കഴിയുന്നതല്ല മെട്രോളജി എന്നത് അളവുകളെ സംബന്ധിക്കുന്ന ശാസ്ത്രമാണ് അതുകൊണ്ട് ഇവിടെ നമ്മൾ അളവുകളുടെ സാധാരണമായിട്ടുള്ള സാങ്കേതിക വശങ്ങളെക്കുറിച്ചും അതിനു പുറകിലുള്ള ശാസ്ത്രത്തെക്കുറിച്ചും ആയിരിക്കും പഠിക്കുന്നത് അതുപോലെ ഈ കോഴ്സിന്റെ അവസാന ഭാഗങ്ങളിൽ നമ്മൾ ചില തരത്തിലുള്ള നോൺ കോൺടാക്ട് അളവുകൾ എടുക്കുന്നതിനെ കുറിച്ചും പഠിക്കും അതുകൊണ്ട് ഇന്നത്തെ പ്രഭാഷണത്തിന്റെ ഉള്ളടക്കം യന്ത്ര സംബന്ധമായ അളവുകളെ കുറിച്ചുള്ളതാണ് ഇതിൽ അളവുകളുടെ ആവശ്യകത എന്താണ് അളവുകൾ ഏതൊക്കെ തരത്തിൽ ഉണ്ട് ഏതൊക്കെ രീതിയിൽ അളവുകൾ എടുക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിക്കും എന്തെങ്കിലും ഒരു വസ്തു ഒരു ചെറിയ അളവിലെങ്കിലും ഉണ്ടെന്ന് നിശ്ചയിക്കുന്ന ഒരു പ്രക്രിയയാണ് മെഷർമെൻറ് എന്നത് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ എന്തെങ്കിലും ഒരു വസ്തു ഉണ്ടായിരിക്കണം അങ്ങനെയുണ്ടെങ്കിൽ അതെന്താണെന്ന് നിശ്ചയിക്കാൻ നമുക്ക് പറ്റുകയും വേണം ഉദാഹരണത്തിന് ഇത് എണ്ണവുമായി ബന്ധപ്പെടുത്താം അതുപോലെ ആകാരഭംഗിയുമായി ബന്ധപ്പെടുത്താം വലിപ്പവുമായി ബന്ധപ്പെടുത്താം അതുപോലെ വസ്തുവിന്റെ ഫിനിഷുമായും ബന്ധപ്പെടുത്താം അപ്പോൾ നമ്മൾ ഉണ്ടെന്ന് കരുതുന്ന വസ്തുക്കൾ മെക്കാനിക്കൽ എൻജിനീയറിങ്മായി ബന്ധപ്പെട്ടതാണെങ്കിൽ അങ്ങനെയുള്ള വസ്തുക്കളുടെ അളവുകളാണ് നമ്മൾ മെക്കാനിക്കൽ മെഷർമെൻറ്സ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ മെക്കാനിക്കൽ മെഷർമെന്റിനെക്കുറിച്ചാണ് കൂടുതൽ പഠിക്കാൻ പോകുന്നത് അതുകൊണ്ട് നമ്മൾ മെക്കാനിക്കൽ എൻജിനീയറിങ് കുറിച്ചും അതുമായി ബന്ധപ്പെട്ട മെക്കാനിക്കൽ മെഷർമെന്റിനെക്കുറിച്ചും ആയിരിക്കും സംസാരിക്കുന്നത് ഒന്നുകൂടി പറഞ്ഞാൽ എന്തെങ്കിലും ഒരു വസ്തു ഒരു ചെറിയ അളവിലെങ്കിലും ഉണ്ടെന്ന് നിശ്ചയിക്കുന്ന ഒരു പ്രക്രിയയാണ് മെഷർമെൻറ് എന്നത് അതിനു മെക്കാനിക്കൽ എൻജിനീയറിങ്മായി ബന്ധമുണ്ടെങ്കിൽ അങ്ങനെയുള്ള വസ്തുക്കളുടെ അളവുകളെയാണ് നമ്മൾ മെക്കാനിക്കൽ മെഷർമെൻറ്സ് എന്ന് പറയുന്നത് അളവുകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ഒരു എഞ്ചിനീയർ ഭൌതികപരമായി ഒരു വസ്തുവിനെ മനസ്സിലാക്കി തരുന്ന അളവുകളെക്കുറിച്ചും അതിനെ എങ്ങനെ നിയന്ത്രിക്കാം എന്നതിനെക്കുറിച്ചും താല്പര്യമുള്ള ഒരാളായിരിക്കും ഈ രണ്ടു കാര്യങ്ങളും വളരെ പ്രാധാന്യമുള്ളതാണ് ഇങ്ങനെ ഭൌതിക പരമായി വസ്തുക്കളിൽ നിന്നും മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ് അതിന്റെ നീളം പിണ്ഡം സാന്ദ്രത ശക്തി ഒഴുക്ക് എന്നിവ ഏഴ് അടിസ്ഥാന യൂണിറ്റുകൾ താഴെപ്പറയുന്നവയാണ് പിണ്ഡം കിലോഗ്രാം 2 സമയം സെക്കൻഡ് 3 താപം ഡിഗ്രി സെൽഷ്യസ് 4 വൈദ്യുതി - ആംപിയർ Amp പദാർത്ഥത്തിന്റെ അളവ് - മോൾ 6 പ്രകാശം - ക്യാൻഡിലാ 7 ദൂരം മീറ്റർ ഇപ്പോൾ നമ്മൾ കാണുന്നത് അടിസ്ഥാനമായിട്ടുള്ള അളവുകളാണ് അതായത് പിണ്ഡം സമയം താപം അതുപോലെ തന്നെ വൈദ്യുതി പദാർത്ഥത്തിന്റെ അളവ് പ്രകാശത്തിന്റെ അളവ് ദൂരം എന്നിവയാണ് ഇവയെ പ്രതിനിധീകരിക്കുന്ന യൂണിറ്റുകളാണ് യഥാക്രമം കിലോഗ്രാം സെക്കൻഡ് ഡിഗ്രി സെൽഷ്യസ് ആംപിയർ മോൾ ക്യാൻഡിലാ മീറ്റർ എന്നിവ അതിനാൽ ഇവ ഏഴ് അടിസ്ഥാന യൂണിറ്റുകളാണ് ഫിസിക്കൽ വേരിയബിളുകളെക്കുറിച്ച് നമ്മൾ സംസാരിക്കാൻ ശ്രമിക്കുന്നതെന്തും ഇതിന്റെ ഭാഗമാകാം ഇതിന്റെ സംയോജനമാകാം അതിനാൽ ഒരു എഞ്ചിനീയർ എല്ലായ്പ്പോഴും ഫിസിക്കൽ വേരിയബിളുകൾ അളക്കാൻ താൽപ്പര്യപ്പെടുന്നു മാത്രമല്ല അവയുടെ നിയന്ത്രണങ്ങളേക്കുറിച്ചും ബോധവനാകും അതിനാൽ ഈ രണ്ട് ഫംഗ്ഷനുകളും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു കാരണം താപനില അല്ലെങ്കിൽ ഒഴുക്ക് പോലുള്ള കാര്യത്തെ നിയന്ത്രിക്കണമെങ്കിൽ ആ വേരിയബിളിനെ അളക്കാൻ ഒരാൾക്ക് കഴിയണം അതിനാൽ ഇവ രണ്ടും മെട്രോളജിയുടെ പ്രധാന ഭാഗങ്ങളാണ് നിയന്ത്രണത്തിന്റെ കൃത്യത പ്രധാനമായും അളവിന്റെ കൃത്യതയെ ആശ്രയിച്ചിരിക്കുന്നു അതിനാൽ ഇപ്പോൾ നമ്മൾ സംസാരിക്കാൻ ശ്രമിക്കുന്നത് ആദ്യം ഒരു വേരിയബിളിനെ അളക്കുക തുടർന്ന് ചെയ്യുന്നത് ഈ വേരിയബിളിനെ നിയന്ത്രിക്കേണ്ടതിനെക്കുറിച്ചും ആണ് ഇതാണ് രണ്ടാമത്തെ ഘട്ടമാണ് നിങ്ങൾ ഈ രണ്ട് അടിസ്ഥാന പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് വേരിയബിളിനെ അളക്കേണ്ടതുണ്ടെങ്കിൽ ഏറ്റവും കൃത്യതയുള്ള ഒരു അളക്കൽ ഉപകരണം ഉണ്ടായിരിക്കണം തുടർന്ന് ആ ഡാറ്റ നിയന്ത്രണത്തിന് നൽകുന്നു അങ്ങനെ വസ്തുവിന്റെ പ്രവർത്തനം നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നു അതിനാൽ നിയന്ത്രണത്തിന്റെ കൃത്യത ഫിസിക്കൽ വേരിയബിളിൽ ചെയ്യുന്ന അളവിന്റെ കൃത്യതയെ നേരിട്ട് ആശ്രയിച്ചിരിക്കുന്നു അതിനാൽ ഒരു നിയന്ത്രണത്തിന്റെ രൂപകൽപ്പനയ്ക്ക് അളക്കൽ സാങ്കേതികതയെക്കുറിച്ച് നല്ല അറിവ് ആവശ്യമാണ് അതിനാൽ നമ്മൾ എന്താണ് സംസാരിക്കാൻ ശ്രമിക്കുന്നത് ഒരു ഫിസിക്കൽ വേരിയബിൾ അളക്കുന്നതിനെക്കുറിച്ച് സംസാരിക്കാൻ നമ്മൾ ശ്രമിക്കുന്നു അടുത്തതായി നിങ്ങൾ ഈ വേരിയബിളിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുകയാണ് കൂടാതെ ഇവ രണ്ടും ഇന്ന് വളരെ പ്രധാനമായിരിക്കുന്നത് എന്തുകൊണ്ട് ആദ്യം ഉൽപ്പാദനം നടത്തുന്നു ഇപ്പോൾ ഈ പ്രക്രിയ ഓട്ടോമേറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ പ്രോസസ്സിനെയോ പ്രോസസ്സ് പാരാമീറ്ററുകളെയോ നിയന്ത്രിക്കേണ്ടതുണ്ട് അങ്ങനെ മികച്ച കാര്യക്ഷമമായ ഉൽപ്പന്നം നേടാൻ സാധിക്കും നിങ്ങൾ ഒരു സ്കീമാറ്റിക് ഡയഗ്രം വരയ്ക്കുകയാണെങ്കിൽ അളവിനെ നിർവചിച്ചിരിക്കുന്നത് ഒരു മുൻനിശ്ചയിച്ച അളവുകളുടെ സ്റ്റാൻഡേർഡും അജ്ഞാതമായ മാഗ്നിറ്റ്യൂഡും തമ്മിൽ താരതമ്യം ചെയ്യുന്നതിനുള്ള പ്രക്രിയ അല്ലെങ്കിൽ പ്രവൃത്തിയാണ് രണ്ട് വേരിയബിളുകൾ തമ്മിലുള്ള അളവ് താരതമ്യം എന്ന് നിർവചനം എത്ര വ്യക്തമായി പറയുന്നുവെന്ന് കാണുക താരതമ്യം എല്ലായ്പ്പോഴും രണ്ടോ അതിലധികമോ വേരിയബിളുകൾ തമ്മിൽ നടക്കുന്നു ഇപ്പോൾ എന്നോടൊപ്പം ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട് നിങ്ങൾ എനിക്ക് ഒരു വസ്തു നൽകുന്നു അതിൽ എനിക്ക് ഫിസിക്കൽ വേരിയബിൾ അളക്കേണ്ടതുണ്ട് കൂടാതെ മാഗ്നിറ്റ്യൂഡ് എന്താണെന്ന് എനിക്കറിയില്ല ഇപ്പോൾ അറിയപ്പെടുന്ന സ്റ്റാൻഡേർഡ് ഉപയോഗിച്ച് ഞാൻ അജ്ഞാതമായ അളവുകൾ കണ്ടെത്താൻ ശ്രമിക്കുന്നു ഇങ്ങനെ ചെയ്യുന്ന പ്രക്രിയയെ അളവെടുക്കുക എന്ന് പറയാം നിങ്ങളത് ഒരു ബ്ലോക്ക് ഡയഗ്രാമിൽ ഇടുകയാണെങ്കിൽ ഇൻപുട്ട് അജ്ഞാത അളവ് മെഷറാൻണ്ട് measurand ആണ് അതിനാൽ നിങ്ങൾ അറിയപ്പെടുന്ന അളവുകൾ ഉപയോഗിക്കണം ഇവിടെ നിങ്ങൾ ചെയ്യുന്നത് അളക്കൽ പ്രക്രിയയാണ് അത് ഒരു താരതമ്യമാണ് ഉദാഹരണത്തിന് നിങ്ങൾ ഒരുപക്ഷേ 20 02 മില്ലിമീറ്റർ ഷാഫ്റ്റ് നിർമ്മിക്കുന്നു ഇവിടെ നിങ്ങൾ ഒരു സ്കെയിലോ വെർനിയറോ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുകയാണ് അല്ലെങ്കിൽ ഈ 20 02 അളക്കാൻ കഴിയുന്ന ഒരു സ്ക്രൂ ഗേജ് എടുക്കാൻ ശ്രമിക്കുകയാണ് ഇവിടെ നിങ്ങൾ മില്ലിമീറ്റർ വ്യത്യാസമുള്ള സ്റ്റാൻഡേർഡ് ഉപകരണം എടുക്കുന്നു തുടർന്ന് നിങ്ങൾ ഈ ഉപകരണം ഉപയോഗിച്ചു താരതമ്യം ചെയ്യാൻ പോകുന്ന അജ്ഞാതമായ അളവ് എടുക്കുന്നു അങ്ങനെ ഫലം 0 2 മില്ലിമീറ്റർ എന്ന് പറയാൻ നിങ്ങൾ ശ്രമിക്കുന്നു തുടക്കത്തിൽ എനിക്ക് ഈ അളവ് ഇല്ല എനിക്ക് ഒരു ഷാഫ്റ്റ് മാത്രമേയുള്ളൂ ഈ ഷാഫ്റ്റ് അളക്കൽ പ്രക്രിയക്ക് വിധേയമാക്കുകയും ആവശ്യമായ ഔട്ട്പുട്ട് നേടാൻ ശ്രമിക്കുകയും ചെയ്യുന്നു ഫലം ഇവിടെ കാണിച്ചിരിക്കുന്നു അതിനാൽ അളവെടുപ്പിന്റെ ലളിതമായ നിർവചനം ഇതാണ് ഇപ്പോൾ ഇത് ഒന്നുകൂടി ആവർത്തിക്കുന്നു അളവുകളെ കുറിച്ചുള്ള ധാരണ വളരെ പ്രധാനമാണ് നമ്മൾ നിർമ്മിച്ച വസ്തുക്കൾ ശരിയാണോ തെറ്റാണോ എന്നും അല്ലെങ്കിൽ നമ്മൾ പിന്തുടർന്ന പ്രക്രിയ നല്ലതോ ചീത്തയോ ആണോ എന്നും അറിയാൻ നമുക്ക് കഴിയണം അങ്ങനെ എങ്കിലേ ഉൽപ്പന്നത്തിന്റെ കാര്യക്ഷമത നിലനിർത്താൻ കഴിയുകയുള്ളു ഒരു സാധാരണ ഉദാഹരണം ഇവിടെ ഒരു വെർനിയർ കാലിപ്പർ ഉണ്ട് ഒരു ഷാഫ്റ്റിന്റെ നീളം അല്ലെങ്കിൽ ഉപകരണത്തിന്റെ നീളം അളക്കാൻ ഒരു ഡിജിറ്റൽ വെർനിയർ കാലിപ്പർ ഉപയോഗിക്കുന്നു പരസ്പരം ഒത്തുചേരുന്ന 2 ഗിയറുകളുണ്ടെന്ന് കരുതുക അതിനുള്ളിൽ നിങ്ങൾക്ക് ഒരു ഷാഫ്റ്റ് ഇടേണ്ട നീളം അളക്കണം നിങ്ങൾക്ക് ഉയരമോ നീളമോ അളക്കണമെങ്കിൽ വളരെ ഉയർന്ന കൃത്യതയെയും കൃത്യമായ ജോലിയെയും കുറിച്ച് സംസാരിക്കുമ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഉപകരണമാണിത് ഒരു കയ്യുറ ഉപയോഗിക്കുന്നതും ഡിജിറ്റൽ ഡിസ്പ്ലേ ഉള്ളതും നല്ലതാണ് ഇവിടെ നിങ്ങൾക്ക് രണ്ടക്ക ദശാംശം അളക്കാൻ കഴിയും കൂടാതെ ഫലങ്ങൾ വളരെ വ്യക്തമായി വായിക്കാനും കഴിയും നിങ്ങൾ ഈ വെർനിയർ കാലിപ്പറിന്റെ ഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ ഇത് ആന്തരിക അളവെടുപ്പിനായി ഉപയോഗിക്കുന്നു ഇത് ബാഹ്യ അളവെടുപ്പിനായി ഉപയോഗിക്കുന്നു ഇവിടെ നിങ്ങൾക്ക് ഒരു നിശ്ചല ഭാഗവും ചലിക്കുന്ന ഭാഗവുമുണ്ട് ഇത് അടിസ്ഥാന അളവ് ആണ് ഇത് ഒരു അജ്ഞാത വേരിയബിൾ അജ്ഞാതമായ ഭാഗം അല്ലെങ്കിൽ ഉൽപ്പന്നം എന്തായാലും അത് ഇവിടെ വരുന്നു അതിനാൽ ഈ അജ്ഞാത വേരിയബിൾ സ്റ്റാൻഡേർഡുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നിങ്ങൾക്ക് അളന്ന മൂല്യം ലഭിക്കും അതിനാൽ മുമ്പത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞത് ഇതാണ് ഔട്ട്പുട്ട് സംഖ്യാപരമാണ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് കാണാൻ കഴിയും അതിനാൽ അളക്കലിന്റെ ആവശ്യകത ഞാൻ ഇതിനകം നിങ്ങളോട് പറഞ്ഞിരുന്നു അത് ഗവേഷണത്തിനും ഉൽപ്പന്ന വികസനത്തിനും ഉള്ള അടിസ്ഥാനകാര്യങ്ങൾ നൽകുന്നു രണ്ടാമത്തെ കാര്യം വികസനം ഡിസൈൻ പ്രക്രിയയുടെ അവസാന ഘട്ടമാണ് അതിൽ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഉപകരണത്തിന്റെ പ്രവർത്തനവും പ്രകടനവുമായി ബന്ധപ്പെട്ട വിവിധ അളവുകൾ അളക്കുന്നതും ഉൾപ്പെടുന്നു അതിനാൽ ഇത് ഇവിടെ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു ഏത് നിയന്ത്രണ പ്രക്രിയയുടെയും അടിസ്ഥാന ഘടകം കൂടിയാണത് നിങ്ങൾക്ക് ഒരു പ്രോസസ്സ് ഓട്ടോമേറ്റ് ചെയ്യണമെങ്കിൽ ഒരു അളക്കൽ ഉപകരണം ഉണ്ടായിരിക്കണം അതിന് യഥാർത്ഥത്തിൽ ഉള്ളതും ആവശ്യമുള്ളതുമായ പ്രകടനവും തമ്മിലുള്ള അളവിലുള്ള വ്യത്യാസം ആവശ്യമാണ് അതിനാൽ നിങ്ങളോട് പറയാൻ ശ്രമിക്കുന്നത് 10 02 മില്ലിമീറ്റർ വ്യാസമുള്ള ഒരു ഷാഫ്റ്റ് നിർമ്മിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന് കരുതുക എന്തുകൊണ്ടാണ് ഇത് വളരെ പ്രധാനമായിരിക്കുന്നത് അസംബ്ലി കാഴ്ചപ്പാടിൽ നിർമ്മാണത്തിൽ മുഴുവൻ ഉൽപ്പന്നത്തിന്റെയും കാര്യക്ഷമത നിലനിർത്താൻ ഇത് ശ്രമിക്കുന്നു നിർമ്മാണത്തിൽ ആദ്യം രണ്ട് വർഗ്ഗീകരണങ്ങളുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഒന്ന് ഭാഗങ്ങൾ നിർമ്മിക്കുന്നു മറ്റൊന്ന് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിനായി ഭാഗങ്ങൾ കൂട്ടിച്ചേർക്കുന്നു രണ്ടിലും അളവുകൾ ഉപയോഗിക്കുന്നു ഭാഗങ്ങളുടെ ഘട്ടത്തിലും നമ്മൾ ഇത് ഉപയോഗിക്കുന്നത് എന്തുകൊണ്ട് പ്രധാനമാണ് കാരണം അടുത്ത ഘട്ടത്തിൽ ഈ ഭാഗങ്ങൾ ഒത്തുചേരുകയും നിങ്ങൾ ഒരു അസംബ്ലി രൂപീകരിക്കുകയും ചെയ്യും അതിനാൽ നിങ്ങളുടെ ഉൽപ്പന്നം മികച്ച കാര്യക്ഷമതയോടെ പ്രവർത്തിക്കുന്ന തരത്തിലുള്ള മികച്ച അസംബ്ലി വേണമെങ്കിൽ ഭാഗങ്ങളുടെ അളവുകളും വ്യതിയാനങ്ങളും അളക്കുന്നതിന് നിങ്ങൾക്ക് ഒരു അളക്കൽ ഉപകരണം ആവശ്യമാണ് ഇവിടെ നിങ്ങൾ ഈ വലുപ്പത്തിലുള്ള ഒരു ഷാഫ്റ്റ് നിർമ്മിക്കേണ്ടതുണ്ട് അത് നിങ്ങൾക്ക് മികച്ച പ്രകടനം നൽകുന്നു പക്ഷേ നിർമ്മാണത്തിന് ശേഷം നിങ്ങൾക്ക് 9 98 മില്ലിമീറ്റർ വ്യാസമുള്ള ഒരു ഷാഫ്റ്റ് ലഭിച്ചു ഇപ്പോൾ നിങ്ങൾക്ക് ഇത് 10 02 വേണം എന്നാൽ മെഷീനിംഗിന് ശേഷം 9 98 ലഭിച്ചു ഇതിന് ഇപ്പോൾ 0 04 മില്ലിമീറ്ററിന്റെ വ്യത്യാസമുണ്ട് നിങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ മാക്രോ സ്കെയിലിലോ മെസോ സ്കെയിലിലോ സംസാരിക്കുമ്പോൾ അത് വലിയതായി തോന്നുന്നില്ല കാരണം ഇത് ഏകദേശം 40 മൈക്രോ ആണ് ശരിയാണ് പക്ഷേ നിങ്ങൾ മൈക്രോ ഡൊമെയ്നിൽ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ ഓരോ മൈക്രോണിന്റെയും വ്യത്യാസം ഭാഗങ്ങളുടെ പ്രകടനത്തിന്റെ കാര്യത്തിൽ ഒരു വലിയ പ്രശ്നമായി മാറുന്നു അതിനാൽ ഇവിടെ നമ്മൾ പറയാൻ ശ്രമിക്കുന്നത് ഏതൊരു നിയന്ത്രണ പ്രക്രിയയുടെയും അടിസ്ഥാന ഘടകം കൂടിയാണ് അളവുകൾ അതിന് യഥാർത്ഥത്തിൽ കിട്ടിയതും എന്നാൽ വേണ്ടതുമായിട്ടുള്ള തമ്മിലുള്ള അളവിലുള്ള വ്യത്യാസം ആവശ്യമാണ് ഇവിടെ ഇത് ആവശ്യമുള്ളതും ഇതാണ് യഥാർത്ഥവും അതിനാൽ ഒരു പൊരുത്തക്കേടുണ്ട് ഇപ്പോൾ ഞാൻ അടുത്ത ഭാഗം ഇടുമ്പോൾ 0 04 ന്റെ ഈ പൊരുത്തക്കേട് നീക്കംചെയ്തുവെന്ന് ഉറപ്പാക്കാൻ ഞാൻ ശ്രമിക്കും മാത്രമല്ല ഈ പ്രക്രിയയിൽ എനിക്ക് മികച്ച നിയന്ത്രണവും ലഭിക്കുന്നു ശരിയായ പ്രകടനത്തിനായി പല പ്രവർത്തനങ്ങൾക്കും അളവുകൾ ആവശ്യമാണ് ഉദാഹരണത്തിന് നിങ്ങൾക്ക് ചോർന്നൊലിക്കുന്ന ഒരു പൈപ്പ് ഉണ്ടായിരിക്കാം എന്തുകൊണ്ടാണ് ഒരു പൈപ്പ് ചോർന്നത് ഉള്ളിലുള്ള വാഷർ വിട്ടുപോയതാകാം അല്ലെങ്കിൽ പൈപ്പ് അസംബ്ലിയിൽ ഉള്ള ആന്തരിക ഭാഗം വിട്ടുപോയതാകാം ഇപ്പോൾ നിങ്ങൾക്ക് ജലപ്രവാഹം തടയാൻ കഴിയില്ല അതിനാൽ പറഞ്ഞു വന്നത് ഭാഗങ്ങൾ ആവശ്യമായ അളവുകളിൽ നിർമ്മിക്കുന്നില്ല അല്ലെങ്കിൽ അത് കൂട്ടിച്ചേർക്കുമ്പോൾ നിങ്ങൾ സഹായിച്ചിട്ടില്ലെങ്കിൽ പിന്നീട് ചോർന്നൊലിക്കുന്ന പൈപ്പ് പ്രതീക്ഷിക്കാം ഉൽപ്പന്നത്തിന്റെ പ്രകടനം അളക്കലിലൂടെ മാത്രമേ വിലയിരുത്തേണ്ടതുള്ളൂ അതിനുശേഷം തീർച്ചയായും നിങ്ങൾക്ക് ഇത് വിപണിയിൽ ഇടാം അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ടെസ്റ്റ് ബെഡിൽ വയ്ക്കുകയും അളക്കുകയും ചെയ്യാം പക്ഷേ മുമ്പ് ഇത് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ശരിയായ അളവ് എടുക്കുക ആധുനിക കേന്ദ്ര വൈദ്യുത നിലയത്തിൽ ശരിയായ പ്രകടനം ഉറപ്പാക്കുന്നതിന് താപനില മർദ്ദം വൈബ്രേഷൻ വ്യാപ്തി മുതലായവ അളക്കുന്നു അതിനാൽ ഇപ്പോൾ നമ്മൾ സംസാരിച്ചത് വ്യതിയാനത്തെയും അളവുകളെയും കുറിച്ചായിരുന്നു പക്ഷേ ഇപ്പോൾ ഞാൻ താപനില വ്യതിയാനങ്ങൾ പറയാൻ ശ്രമിക്കുകയാണ് നിങ്ങൾ കാണുന്ന അടിസ്ഥാന ഏഴ് വേരിയബിളുകൾ പ്രധാനമായ താപനില മർദ്ദം എന്താണ് മർദ്ദം മർദ്ദം ഒരു യൂണിറ്റ് ഏരിയയിൽ പ്രയോഗിക്കുന്ന ബലമല്ലാതെ മറ്റൊന്നുമല്ല അതിനാൽ നിങ്ങൾക്ക് ബലം അളക്കാൻ കഴിയും ബലം ന്യൂട്ടണിൽ പറയാം നിങ്ങൾക്ക് പിണ്ഡത്തിൽ നിന്ന് അളക്കുകയും ചെയ്യാം അതിനാൽ നിങ്ങൾക്ക് ഇത് ലിങ്കുചെയ്യാൻ കഴിയും ഏഴ് വേരിയബിളുകളും പരസ്പരം ആവശ്യാനുസരണം കൂട്ടി ചേർത്ത് എഴുതാം തുടർന്ന് നിങ്ങൾക്ക് ഈ വിസ്തീർണം മില്ലിമീറ്റർ × മില്ലിമീറ്ററിൽ എന്ന് പറയാം ഇത് പിന്നീട് ഏഴ് അടിസ്ഥാന യൂണിറ്റുകളിൽ ഞാൻ പറഞ്ഞ ദൂരവുമായി മീറ്റനെ ബന്ധിപ്പിക്കാൻ കഴിയും അതിനാൽ എല്ലാ പാരാമീറ്ററുകളും ഇപ്പോൾ ലിങ്കുചെയ്തിരിക്കുന്നതായി നിങ്ങൾക്ക് കാണാനാകും തുടർന്ന് നിങ്ങൾക്ക് ഇത് അളക്കാനും ഒരു ഔട്ട്പുട്ടായി നേടാനും കഴിയും അതിനാൽ ശരിയായ പ്രകടനം ഉറപ്പാക്കുന്നതിന് താപനില മർദ്ദം വൈബ്രേഷൻ വ്യാപ്തി മുതലായവ അളക്കൽ പ്രക്രിയയിൽ നിരീക്ഷിക്കുന്നു അളവെടുപ്പിനു വാണിജ്യത്തെ സ്വാധീനിക്കാൻ കഴിയും കാരണം ഉൽപ്പന്നത്തിന്റെ വില മെറ്റീരിയൽ ഊർജ്ജം സമയ ചെലവ് അധ്വാനം മറ്റ് പരിമിതികൾ എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് സ്ഥാപിച്ചിരിക്കുന്നത് അതിനാൽ ശരിയായി അളവ് എടുക്കാൻ കഴിയുന്നുവെങ്കിൽ പിന്നീട് നമ്മൾ നോക്കുന്നത് ഉയർന്ന കൃത്യത കൈവരിക്കാൻ പറ്റുമോ എന്നതാണ് നമ്മൾക്ക് കൂടുതൽ കൃത്യത കൈവരിക്കാൻ പറ്റിയാൽ ഒരേ ഉൽപ്പന്നം നിർമ്മിക്കുന്നതിനായി ഉപയോഗിക്കുന്ന വസ്തുക്കളുടെ അളവ് കുറയ്ക്കാനും ശരിയായ ഫീഡുകളോ വേഗതയോ മെഷീനുകളിൽ സജ്ജമാക്കാനോ കഴിയും അങ്ങനെ വൈദ്യുതി കുറയുകയും സമയവും അധ്വാനവും കുറയുകയും ചെയ്യും അതിനാൽ അളക്കൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നു അളവുകളുടെ വർഗ്ഗീകരണത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ സാധാരണയായി രണ്ടായി തിരിക്കാം ഒന്ന് മെക്കാനിക്സ് അടുത്തത് പവർ ടൈപ്പ്സ് മെക്കാനിക്സ് തരം അളവുകളിൽ നിന്ന് ആരംഭിക്കാൻ ഞാൻ ശ്രമിക്കുകയാണ് അതിനാൽ ഇവിടെ അത് അനുഭവാത്മക അനുഭവേദ്യ രീതിയിലൂടെയും രണ്ടാമത്തേത് യുക്തിസഹമായ രീതിയിലൂടെയും മൂന്നാമത്തേത് പരീക്ഷണാത്മക രീതിയിലൂടെയും ആകാം അളവുകൾ മെക്കാനിക്സ് തരം പവർ തരം എന്നിങ്ങനെ തിരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുവല്ലോ അനുഭവാത്മക രീതി യുക്തിസഹമായ രീതി പരീക്ഷണാത്മക രീതി എന്നിങ്ങനെ കൂടി മെക്കാനിക്സ് തരത്തെ കൂടുതലായി തരംതിരിച്ചിട്ടുണ്ട് അപ്പോൾ അനുഭവാത്മകമായ അളവെടുക്കൽ രീതി എന്താണ് അനുഭവേദ്യമായ മാർഗ്ഗങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചില പരീക്ഷണങ്ങൾ നടത്തുകയും തുടർന്ന് മോഡലുമായി വരാൻ ശ്രമിക്കുകയും ചെയ്യുന്നു ഉദാഹരണത്തിന് ഒരു പ്രത്യേക മെഷീനിൽ ഒരു പ്രത്യേക സ്ഥലത്ത് മെഷീനിംഗ് പ്രവർത്തനം നടത്താൻ ഞാൻ ശ്രമിക്കുന്നു തുടർന്ന് ഒരു വർക്ക് പീസും പ്രത്യേക ജ്യാമിതിയിലുള്ള ഒരു തരം ഉപകരണവും ഉപയോഗിച്ച് ഞാൻ പരീക്ഷണങ്ങൾ ആരംഭിക്കുന്നു അതിനാൽ നിങ്ങൾ ഒരു ലേത്ത് മെഷീൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മൂന്ന് പാരാമീറ്ററുകൾ ഉണ്ട് വേഗത ഫീഡ് കട്ടിന്റെ ആഴം ഇതിലെ എല്ലാം ഞാൻ മാറ്റുന്നു ശേഷം മെറ്റീരിയൽ നീക്കംചെയ്യൽ നിരക്ക് ഫീഡ് വേഗത കട്ടിന്റെ ആഴം എന്നിങ്ങനെയുള്ളവയ്ക്ക് ആനുപാതികമാണെന്ന് ഞാൻ പറയുന്നു അതിനാൽ ഈ വേരിയബിളുകൾക്കായി ഞാൻ കുറച്ച് മാഗ്നിറ്റ്യൂഡ് പവർ നിയമത്തിലോ അല്ലെങ്കിൽ ലീനിയർ റിഗ്രഷൻ സമവാക്യത്തിലോ ഇടാൻ ശ്രമിക്കും തുടർന്ന് നിങ്ങൾക്ക് പ്രോസസ്സ് ചെയ്ത മോഡൽ ലഭിക്കും ഞാൻ ചെയ്തത് ഒരു അനുഭവാത്മക രീതിയായിരുന്നു അനുഭവ രീതി എന്നതിനർത്ഥം ഞാൻ പരീക്ഷണം നടത്തുമ്പോൾ വർഷത്തിലെ ഈ സമയത്തും ഈ വർക്ക്പീസും ഈ ഉപകരണങ്ങളും ഉപയോഗിച്ച് ഈ ലാബിൽ ഞാൻ ഈ മെഷീനിൽ പരീക്ഷണം നടത്തിയപ്പോൾ ഇതെല്ലാം പരിമിതികളാണെന്ന് നിങ്ങൾക്ക് കാണാം പക്ഷേ അവസാനമായി ഒരു മോഡൽ വികസിപ്പിച്ചുകൊണ്ട് എനിക്ക് ഈ പ്രക്രിയ മനസ്സിലാക്കാൻ കഴിഞ്ഞു ഈ സാഹചര്യങ്ങളിൽ മാത്രമേ ഈ മോഡലിനു സാധുതയുള്ളൂ അതിനാൽ ഇതിനെ വലിയ അളവിൽ സാമാന്യവൽക്കരിക്കാനാവില്ല അതിനാൽ അവയെ അനുഭവാത്മക അളവെടുക്കൽ രീതി എന്ന് വിളിക്കുന്നു ഇത് ഡിസൈനറുടെ ഭാഗത്തെ അവബോധവും എഞ്ചിനീയറിംങ്ങിലുള്ള മികച്ച അറിവും അടിസ്ഥാനമാക്കിയുള്ളതാണ് സമാന രൂപകൽപ്പനയിലെ തന്റെ അല്ലെങ്കിൽ മറ്റ് ഡിസൈനറുടെ മുൻകാല അനുഭവത്തിന്റെ ഫലത്തെ അടിസ്ഥാനമാക്കിയാണ് ഡിസൈനർ സാധാരണയായി തന്റെ പ്രസ്താവന പറയുന്നത് തമ്പ് റൂളിന്റെ രൂപത്തിൽ ലഭ്യമായ വിവരങ്ങളും ഡാറ്റയും ആണ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെ ആ തമ്പ് റൂൾ ലഭിച്ചു ഈ അനുഭവപരമായ സമീപനം ചെയ്യുന്നതിലൂടെ തമ്പ് റൂൾ ലഭിക്കുന്നു അതിനാൽ ഹാൻഡ് ബുക്കിലും കോഡുകളിലും തമ്പ് റൂൾസ് രൂപത്തിൽ ലഭ്യമായ വിവരങ്ങളും ഡാറ്റയും അളക്കാനുള്ള ഉപകരണങ്ങൾ നിർമ്മിക്കാൻ അനുഭവേദ്യ രീതി ഉപയോഗിക്കാൻ ഡിസൈനറെ സഹായിക്കുന്നു അളക്കുന്നതിനുള്ള യുക്തിസഹമായ രീതികൾ എന്തൊക്കെയാണ് നന്നായി സ്ഥാപിതമായ ശാസ്ത്രീയ നഷ്ടത്തെയും ബന്ധത്തെയും അടിസ്ഥാനമാക്കിയുള്ളതാണ് ഇത് ഈ നഷ്ടവും ബന്ധവും പ്രധാനമായും മെക്കാനിക്സ് തെർമോഡൈനാമിക്സ് മേഖലകളിൽ ലഭ്യമാണ് അതേസമയം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന്റെ മറ്റ് മേഖലകളിൽ ലഭ്യത വളരെ വിരളമാണ് അതിനാൽ ആദ്യത്തേത് കൂടുതൽ അവബോധജന്യമായിരുന്നു നിങ്ങൾ ഹാൻഡ്ബുക്കിൽ നിന്ന് എടുക്കുകയോ അല്ലെങ്കിൽ ചില അനുഭവ സൂത്രവാക്യങ്ങളിൽ നിന്ന് എടുക്കുകയോ ചെയ്തു അടുത്തത് പൂർണ്ണമായും ശാസ്ത്രത്തിലും ഗണിതശാസ്ത്രത്തിലും പ്രവർത്തിക്കുന്നു നിങ്ങൾ ചെയ്യുന്നു നിങ്ങൾ പ്രശ്നം സാമാന്യവൽക്കരിക്കുന്നു തുടർന്ന് നിങ്ങൾ ഒരു പരിഹാരവുമായി വരുന്നു അതിനാൽ അത് യുക്തിസഹമായ അളവെടുക്കൽ രീതികളാണ് അവസാനത്തേത് പരീക്ഷണാത്മക അളവെടുക്കൽ രീതിയാണ് ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാ ഭൌതിക അളവുകളുടെയും പരസ്പരബന്ധിതമായ അളവുകൾ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഇത് ഈ രീതിയിൽ പ്രാരംഭ രൂപകൽപ്പനയെ അടിസ്ഥാനമാക്കിയുള്ള ഉൽപ്പന്നം പരീക്ഷിക്കപ്പെടുന്നു കൃത്യമാണ് മാത്രമല്ല ഇത് എല്ലാ ഭൌതിക അളവുകളുടെയും പരസ്പരബന്ധിതമായ അളവുകളാണ് ഉദാഹരണത്തിന് നിങ്ങൾ ഒരു ഷാഫ്റ്റ് എടുക്കാൻ ശ്രമിക്കുന്നു നിങ്ങൾ റഫ്നെസ്സ് അളക്കുന്നു പരന്നത അളക്കാൻ ശ്രമിക്കുന്നു നീളം പോലുള്ള മറ്റ് പാരാമീറ്ററുകൾ അളക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നു നിങ്ങൾ എല്ലാ കാര്യങ്ങളും കൃത്യമായി അളക്കുകയും ഈ അളവുകൾ പരസ്പരം ബന്ധിപ്പിക്കുകയും ചെയ്യുന്നു ഫലങ്ങൾ ശാസ്ത്രീയമായി വിശകലനം ചെയ്യുകയും പിശകുകൾ വിവേകപൂർവ്വം വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നു പിശക് എന്നതിനർത്ഥം അടിസ്ഥാനത്തിൽ നിന്നുള്ള ഏതെങ്കിലും വ്യതിയാനം നിങ്ങൾ പിശക് ഡാറ്റ നോക്കാൻ ആരംഭിക്കുമ്പോൾ നിങ്ങൾക്ക് നിരവധി വിവരങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കാം ഉദാഹരണത്തിന് നിങ്ങൾ ഒരു ഡോക്ടറുടെ അടുത്ത് ചെന്ന് നിങ്ങളുടെ രക്തസമ്മർദ്ദം അളക്കാൻ ആഗ്രഹിക്കുമ്പോൾ പൊതുവായ ഉപദേശം നിങ്ങൾ ഡോക്ടറിന്റെ അടുത്തേക്ക് പോകുന്നതിനുമുമ്പ് 5 മുതൽ 10 മിനിറ്റ് വരെ കിടക്കുകയോ വിശ്രമിക്കുകയോ ചെയ്യുക തുടർന്ന് അളവെടുക്കാൻ ആരംഭിക്കുക എന്നതാണ് അതിനാൽ ആശുപത്രിയിലേക്ക് നടന്ന് ചെന്നയുടനെ രക്തസമ്മർദ്ദം എടുക്കുന്നതിനേക്കാൾ ആ അളവ് കൂടുതൽ ഉചിതമാണ് അതിനാൽ നിങ്ങൾ നടന്നതിന് ശേഷം പെട്ടെന്ന് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നത് ഒരു പിശകാണ് പിശക് ചിട്ടയായതോ ക്രമരഹിതമോ ആകാം ഉദാഹരണത്തിന് രാവിലെ നിങ്ങൾ ഒരു അളവ് എടുക്കാൻ ശ്രമിക്കുമ്പോൾ അത് ഏകദേശം 10 ശതമാനം ആകാം ഉച്ചതിരിഞ്ഞ് ഇത് 40 ശതമാനമാകാം വൈകുന്നേരം ഇത് 8 ശതമാനമാകാം അതിനാൽ ശരാശരിയിൽ നിന്നുള്ള വ്യതിയാനത്തെ പിശക് എന്ന് വിളിക്കുന്നു അതിനാൽ ഫലങ്ങൾ ശാസ്ത്രീയമായി വിശകലനം ചെയ്യുകയും പിശകുകൾ വിവേകപൂർവ്വം വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നു ട്രയൽ എറർ Trial Error രീതി ഉപയോഗിച്ച് സിസ്റ്റത്തിന്റെ ഉൽപ്പന്നം ആവശ്യമുള്ള പ്രകടനം നൽകുന്നതുവരെ പാരാമീറ്ററുകൾ ക്രമീകരിക്കുന്നു അതിനാൽ ഈ അളവിനെ പരീക്ഷണാത്മക അളവെടുക്കൽ രീതി എന്ന് വിളിക്കുന്നു അപ്പോൾ നമ്മൾ ഇപ്പോൾ മൂന്ന് രീതികൾ കണ്ടു ഒന്ന് അനുഭവേദ്യവും മറ്റൊന്ന് യുക്തിസഹവും പിന്നെ ഒന്ന് പരീക്ഷണാത്മകവുമാണ് യുക്തിസഹമായ രീതി ശാസ്ത്രവും ഗണിതവും യുക്തിയും അടിസ്ഥാനമാക്കിയുള്ളതാണ് അത് നിങ്ങൾ യുക്തിഉപയോഗിച്ച് അളക്കുന്ന രീതിയാണ് അതിനാൽ ഇവിടെ നിങ്ങൾ ഹാൻഡ്ബുക്കിൽ നിന്നും തമ്പ് റൂളിൽ നിന്നും ഡാറ്റ എടുക്കുന്നു എന്നാൽ ഇവിടെ നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ എല്ലാ അളവുകളും അളക്കുന്നു അളന്ന അളവുകൾ പറയുന്നു തുടർന്ന് അളവുകൾ പരസ്പരബന്ധിതമാക്കാൻ ശ്രമിക്കുന്നു ഇത് രസകരമായ കാര്യമാണ് നിങ്ങൾ അളക്കുകയും പിന്നീട് പരസ്പരം ബന്ധപ്പെടുകയും ചെയ്യുന്നു ഈ കാണുന്നത് മെക്കാനിക്സ് തരം അളവെടുപ്പിന് കീഴിലുള്ള പരീക്ഷണാത്മക രീതിയാണ് പവർ തരം മെഷർമെന്റ് ആയിരുന്നു അടുത്ത വർഗ്ഗീകരണം ഇവിടെ നമ്മൾ പവർ തരങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു ഇവ സാധാരണയായി ഒരു നിയന്ത്രണ സംവിധാനത്തിന്റെ ഭാഗമായ നിരീക്ഷണ അല്ലെങ്കിൽ പ്രവർത്തന അളവുകളാണ് അതിനാൽ അളക്കുന്ന അളവുകൾ സൂചിപ്പിക്കുകയും ചിലപ്പോൾ ഇത് രേഖപ്പെടുത്തുകയും ചെയ്യുന്നു ഇവിടെ നിങ്ങൾക്ക് അളവുകൾ കാണിക്കാൻ ഒരു ഡിസ്പ്ലേ ഉണ്ട് നിങ്ങൾ 20 റീഡിങ്സ് ചെയ്യുന്നുവെന്ന് കരുതുക അത് കാണിക്കുകയും റെക്കോർഡു ചെയ്യുകയും ചെയ്യുന്നു ഇവയെ അനുബന്ധ റഫറൻസ് അളവുകളുമായി താരതമ്യപ്പെടുത്തുന്നു മാത്രമല്ല ഉൽപാദിപ്പിക്കുന്ന പിശകുകൾ ഊർജ്ജ ഉൽപാദന പ്രക്രിയയെ നിയന്ത്രിക്കുന്നതിന് ഉപയോഗിക്കുന്നു ഇതാണ് അളവിന്റെ പവർ ടൈപ്പ് ഉപകരണങ്ങൾ അതിൽ സൂചി cos⁡φ ഫേസ് എതാണെന്ന് സൂചിപ്പിക്കുന്നതായി നിങ്ങൾ കാണുന്നു തുടർന്ന് അത് അടയാളങ്ങളിൽ കാണിക്കുന്നു അളവ് കാണിക്കുന്ന ഒരു ഉപകരണമാണിത് അതിനാൽ നിങ്ങൾ അളവെടുക്കൽ രീതികളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ രണ്ട് തരം അളക്കൽ രീതികളുണ്ട് ഒന്നിനെ നേരിട്ടുള്ള അളക്കൽ രീതി എന്നും മറ്റൊന്ന് പരോക്ഷ അളവെടുക്കൽ രീതി എന്നും വിളിക്കുന്നു നിങ്ങൾ ഒരു അളവ് എടുക്കുകയും വേഗത്തിൽ ഒരു സ്റ്റാൻഡേർഡുമായി താരതമ്യപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് നേരിട്ടുള്ള അളക്കൽ രീതി ഉദാഹരണത്തിന് എനിക്ക് ഒരു വെർനിയർ കാലിപ്പർ ഉണ്ട് അതിൽ അടയാളങ്ങളുണ്ട് ഞാൻ അത് എടുത്ത് ഒരു ഷാഫ്റ്റിന്റെ വ്യാസം അളക്കുന്നു എന്താണ് പിശക് എന്ന് കണ്ടെത്തുന്നു അല്ലെങ്കിൽ മൂല്യം എന്താണെന്ന് കണ്ടെത്തുന്നു അതിനാൽ അതാണ് നേരിട്ടുള്ള അളക്കൽ രീതി ഞാൻ അളക്കുന്നതിന്റെ നേരിട്ടുള്ള അളവ് എനിക്ക് ലഭിക്കും അന്തിമ ഔട്ട്പുട്ട് ലഭിക്കാൻ എനിക്ക് ഒരു ഡെറിവേഷനോ മൂല്യത്തിന്റെ ഡെറിവേറ്റീവോ എടുക്കേണ്ടതില്ല അതിനാൽ അത് നേരിട്ടുള്ള അളവാണ് ഫലത്തിലെത്താൻ ഗണിതശാസ്ത്രപരമായ കണക്കുകൂട്ടലുകളൊന്നും ഇതിൽ ഉൾപ്പെടുന്നില്ല ഉദാഹരണത്തിന് അടയാളപ്പെടുത്തിയ സ്കെയിൽ ഉപയോഗിച്ച് നീളം അളക്കുന്നത് എനിക്ക് പിണ്ഡം അളക്കാൻ ആഗ്രഹമുണ്ട് ഞാൻ കിലോഗ്രാമിൽ ആണ് അളക്കുന്നത് അളക്കാൻ കഴിയുന്ന ഒരു ഉപകരണം എനിക്കുണ്ട് അതുപോലെ എനിക്ക് സാന്ദ്രത അളക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ അത് നേരിട്ടുള്ള അളവല്ല സാന്ദ്രത പിണ്ഡത്തെ വോളിയത്താൽ ഹരിച്ചാലേ കിട്ടുകയുള്ളു എനിക്ക് വോളിയം അളക്കണമെങ്കിൽ ഒരു നേരിട്ടുള്ള അളവ് ഉപയോഗിക്കണം ഞാൻ പിണ്ഡം ഉപയോഗിക്കും പക്ഷേ സാന്ദ്രത അളക്കേണ്ടിവരുമ്പോൾ ഞാൻ ഗണിതശാസ്ത്രപരമായി ചില കണക്കുകൂട്ടലുകൾ നടത്തുകയും സാന്ദ്രത കണ്ടെത്തുകയും ചെയ്യുന്നു അതിനാൽ ഇതാണ് ഞാൻ പറയാൻ ശ്രമിച്ചത് ഈ രീതി വളരെ കൃത്യമല്ല കാരണം ഇത് മനുഷ്യന്റെ വിവേകത്തെ ആശ്രയിച്ചിരിക്കുന്നു ഞാൻ എന്താണ് പല തവണയായി പറയാൻ ശ്രമിക്കുന്നത് എന്ന് വച്ചാൽ നമ്മൾക്ക് ഒരു ടാപ്പേർഡ് ഷാഫ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെ വ്യാസം അളക്കും കാരണം ഓരോ ഭാഗത്തും വ്യാസത്തിൽ ഒരു മാറ്റമുണ്ട് ഒരു സാധാരണ ഷാഫ്റ്റ് ആണെങ്കിൽ വ്യാസം അളക്കുന്നത് വളരെ എളുപ്പമാണ് അതിനാൽ വെർനിയർ കാലിപ്പറുകൾ പരന്ന പ്രതലത്തിൽ ഉപയോഗിക്കാൻ കഴിയും ഇവിടെ നിങ്ങൾ ഒരു വെർനിയർ കാലിപ്പർ ഉപയോഗിക്കുകയാണെങ്കിൽ ഇത് ഇതുപോലെ കാണപ്പെടും അതിനാൽ മൂല്യം നൽകുന്നതിന് ഈ രണ്ട് ഭാഗങ്ങളും കൃത്യമായി മുട്ടിയില്ലായിരിക്കും ഇതിനെ അളക്കുന്നതിലെ പിശക് എന്ന് വിളിക്കുന്നു അതിനാൽ ടാപ്പേർഡ് വർക്ക്പീസ് അളക്കാൻ നമ്മൾക്ക് സ്റ്റാൻഡേർഡ് വെർനിയർ ഉപയോഗിക്കാൻ കഴിയില്ല ഈ വശം കോണിൽ ആയതുകൊണ്ട് മറ്റൊരു വഴി വേണം അതിനാൽ എന്റെ ഉപകരണത്തിൽ ഒരു പിശക് ഉണ്ട് ഇതൊരു ഡയൽ ഗേജാണെങ്കിൽ എനിക്ക് അടയാളങ്ങളുണ്ടെന്നും ഡയൽ ഗേജ് ചില മൂല്യത്തെ സൂചിപ്പിക്കുന്നുവെന്നും കരുതുക ഞാൻ എല്ലായ്പ്പോഴും ഈ ഡാറ്റ വലുതുവശത്തായി കാണണം അതിനാൽ ഞാൻ ഈ വശത്ത് നിന്നോ അല്ലെങ്കിൽ ഈ ഭാഗത്തു നിന്നോ നോക്കാൻ തുടങ്ങിയാൽ ഞാൻ ഇതേതെങ്കിലും 0 അല്ലാതെ ഒരു മൂല്യമായി തിരഞ്ഞെടുക്കും അതിനാൽ ഇവയെല്ലാം മനുഷ്യന് സിസ്റ്റത്തിലേക്ക് ചേർക്കാൻ കഴിയുന്ന മനുഷ്യന്റെ വിവേകത്തെ അല്ലെങ്കിൽ പിശകിനെ ആശ്രയിച്ചിരിക്കുന്നു നമ്മൾ പരോക്ഷ അളവെടുക്കൽ രീതിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ രീതിയിൽ നിരവധി പാരാമീറ്ററുകൾ നേരിട്ട് അളക്കുന്നു തുടർന്ന് മൂല്യം ഗണിതശാസ്ത്ര രീതികളിൽ കൂടി കണ്ടെത്തുന്നു സാന്ദ്രതയെക്കുറിച്ച് ഞാൻ ഇതിനകം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് മർദ്ദം അളക്കാനും നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ കഴിയും മർദ്ദം കണ്ടെത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്തുചെയ്യുന്നു നിങ്ങൾ ബലത്തെ വിസ്തീർണം ഉപയോഗിച്ച് ഹരിക്കുന്നു നമ്മൾ ബലത്തെ ന്യൂട്ടണിലും ഏരിയയെ ദൂരത്തിലും അളക്കും പിന്നീട് നമ്മൾ ഇത് കണക്കാക്കാൻ ശ്രമിക്കുന്നു ഒടുവിൽ മർദ്ദം ലഭിക്കുന്നു അതിനാൽ ഇവിടെ ഇത് പരോക്ഷ അളവെടുക്കൽ രീതിയാണ് പലതവണ നമ്മൾ പരോക്ഷ അളവുകൾ ഉപയോഗിക്കുന്നു കൂടാതെ നിരവധി തവണ നമ്മൾ നേരിട്ടുള്ള അളവുകൾ ഉപയോഗിക്കുന്നു നേരിട്ടുള്ള അളവുകൾ കിട്ടാൻ നേരിട്ട് അളക്കുകയും മൂല്യം നേടുകയും ചെയ്യണം ഇപ്പോൾ എന്താണ് സംഭവിച്ചത് ഇലക്ട്രോണിക്സ് ജനപ്രിയമായിത്തീർന്നു പരോക്ഷ ഗണിതശാസ്ത്ര കണക്കുകൂട്ടലുകൾ ആന്തരികമായി നടക്കുന്നു അതിനാൽ ഇത് പരോക്ഷ അളവെടുപ്പിന്റെ മൂല്യം കൃത്യമായി കാണിക്കുന്നു തുടർന്ന് നമ്മൾ ഒരു ഷാഫ്റ്റിന്റെ അളവ് ചെയ്യാൻ ശ്രമിക്കുന്നു അതിനാൽ ഇത് നേരിട്ടുള്ളതല്ല അത് പരോക്ഷമായി മാറുകയും മൂല്യം നേടാനും സാധിക്കുന്നു അതിനാൽ പരോക്ഷ അളവുകളിൽ നിരവധി പാരാമീറ്ററുകൾ നേരിട്ട് അളക്കുന്നു തുടർന്ന് ഒരു മൂല്യം ഗണിതശാസ്ത്ര ബന്ധത്തിലൂടെ നിർണ്ണയിക്കപ്പെടുന്നു ഉദാഹരണത്തിന് ഭാരം അളക്കുന്നതിനുള്ള രീതികൾ നിങ്ങൾക്കറിയാം ഭാരം ഒരു ബാലൻസ് ഉപയോഗിച്ച് അളക്കുന്നു അത് നേരിട്ടുള്ളതാണ് പക്ഷേ ഭാരം അളക്കാൻ ഞാൻ ഒരു ഓയിൽ പ്രഷർ സെൻസർ ഉപയോഗിക്കുകയാണെങ്കിൽ അതിന് ഒരു കംപ്രസ്സർ ഉണ്ട് മർദ്ദം കൂടുന്നതിനനുസരിച്ച് എണ്ണ ചോർന്നൊലിക്കാൻ സാധ്യത ഉണ്ട് ഇത് ഭാരം അളക്കാനുള്ള ഒരു പരോക്ഷ മാർഗമാണ് അതിനാൽ ഇവിടെ ക്രിസ്റ്റൽ കഷണം ഭാരം മൂലമുള്ള സ്ഥാനചലനം അളക്കുന്നു എന്നിട്ട് അത് വേഗത്തിൽ പറയുന്നു ഇതിനെ നേരിട്ടുള്ള അളവെടുപ്പ് എന്നും ഇതിനെ പരോക്ഷ അളവ് എന്നും വിളിക്കുന്നു അതിനാൽ ഞാൻ ചില കണക്കുകൂട്ടലുകൾ നടത്തുന്നു ഇപ്പോൾ ഇവിടെ നിന്ന് ചോർന്ന എണ്ണ എന്താണെന്ന് ഞാൻ കാണും തുടർന്ന് ചോർച്ച അളക്കാനോ എണ്ണയുടെ മർദ്ദം അളക്കാനോ ശ്രമിക്കും ഇവിടെ നിന്ന് ഞാൻ ഭാരം പരസ്പരം ബന്ധപ്പെടുത്തി അളക്കുന്നു അപ്പോൾ നമ്മൾ അളവുകളുടെ തലങ്ങളെ കുറിച്ച് സംസാരിക്കുന്നു മൂന്ന് തരം ലെവലുകൾ ഉണ്ട് ഒന്നിനെ പ്രാഥമിക തലം എന്നും മറ്റേതിനെ ദ്വിതീയ തലം എന്നും മൂന്നാമത്തേതിനെ തൃതീയ തലം എന്നും വിളിക്കുന്നു പ്രാഥമിക അളവ് എന്താണ് അളന്ന അളവിനെ നീളത്തിലേക്ക് പരിവർത്തനം ചെയ്യാതെ നേരിട്ടുള്ള നിരീക്ഷണത്തിലൂടെ നടത്താൻ കഴിയുന്ന ഒന്നാണ് പ്രാഥമിക അളവ് ഒരു മീറ്റർ വടി ഉപയോഗിച്ച് ഒരു വസ്തുവിന്റെ നീളം നിർണ്ണയിക്കുന്നതുപോലുള്ള രണ്ട് നീളങ്ങളുടെ പൊരുത്തപ്പെടുത്തൽ നല്ല ചൂടുള്ള ലോഹങ്ങളുടെ നിറങ്ങളുടെ പൊരുത്തപ്പെടുത്തൽ അതിനാൽ അളന്ന അളവിനെ നീളത്തിലേക്ക് പരിവർത്തനം ചെയ്യാതെ നേരിട്ടുള്ള നിരീക്ഷണത്തിലൂടെ നടത്താൻ കഴിയുന്ന ഒന്നാണ് പ്രാഥമിക അളവ് അതിനാൽ അതിനെ ഒരു പ്രാഥമിക അളവുകോൽ എന്ന് വിളിക്കുന്നു ഉദാഹരണത്തിന് ഞാൻ ഒരു ബ്ലോക്ക് എടുക്കുന്നു ഒരു അളക്കൽ സ്കെയിൽ എടുക്കുന്നു ഞാൻ അത് അളക്കുമ്പോൾ എനിക്ക് ലഭിക്കുന്ന ഡാറ്റ നേരിട്ടുള്ള അളവാണ് ഇനി നിങ്ങൾ നിർവചനത്തിലേക്ക് നോക്കുകകയാണെങ്കിൽ ഒരു പ്രാഥമിക അളവ് നേരിട്ടുള്ള നിരീക്ഷണത്തിലൂടെ ചെയ്യാൻ കഴിയുന്ന ഒന്നാണ് കാരണം ഒരു സ്കെയിൽ ഉണ്ട് സ്കെയിലിൽ എനിക്ക് അടയാളങ്ങളുണ്ട് അപ്പോൾ ഞാൻ അളന്ന അളവുകളൊന്നും നീളത്തിലേക്ക് പരിവർത്തനം ചെയ്യേണ്ടതില്ല നിങ്ങൾക്ക് ഇവിടെ ഒന്ന് അടിയിലാണെന്നും മറ്റൊന്ന് ഇഞ്ചിലാണെന്നും കാണാം അതിനാൽ ഞാൻ അളക്കുന്നതെന്തും എനിക്ക് അത് ഒന്നുകിൽ അടി കണക്കിൽ റഫർ ചെയ്യാൻ കഴിയും അല്ലെങ്കിൽ എനിക്ക് ഇഞ്ചുകളിൽ സംസാരിക്കാൻ ശ്രമിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഞ്ചും സെന്റിമീറ്ററും ആയി പറയാം അതിനാൽ എനിക്ക് അത് ഉപയോഗിക്കാനും ചെയ്യാനും കഴിയും ദ്വിതീയ അളവ് എന്താണ് നീളത്തിന്റെ അടിസ്ഥാനത്തിൽ ആവശ്യമായ അളവിൽ ഒരു പരിവർത്തനം മാത്രമേ ദ്വിതീയ അളക്കലിന് ആവശ്യമുള്ളൂ അളന്ന അളവ് ഒരു വാതകത്തിന്റെ മർദ്ദമായിരിക്കാം അതിനാൽ ഇത് നിരീക്ഷിക്കാനാകില്ല അതിനാൽ ദ്വിതീയ അളവെടുപ്പിന് മർദ്ദ വ്യതിയാനത്തെ നീളത്തിലുള്ള അളവിലേക്ക് വിവർത്തനം ചെയ്യുന്ന ഒരു ഉപകരണം ആവശ്യമാണ് മർദ്ദത്തിലെ മാറ്റം അറിയാൻ ഒരു ലെങ്ത് സ്കെയിൽ അല്ലെങ്കിൽ നീളത്തിന്റെ യൂണിറ്റിൽ കാലിബ്രേറ്റ് ചെയ്ത ഒരു സ്റ്റാൻഡേർഡ് വേണം അതിനാൽ ഇവിടെ നമ്മൾ എന്താണ് ചെയ്യുന്നത് സമ്മർദ്ദ മാറ്റത്തെ ഒരു നീളമാറ്റമായി കണക്കാക്കുന്നു ഒരു പാരാമീറ്റർ മറ്റൊരു പാരാമീറ്ററിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടുന്നു അതിനാൽ അവിടെ നിന്ന് നമ്മൾ ഇത് അളക്കാൻ തുടങ്ങുന്നു അതിനാൽ ഇവിടെ കാലിബ്രേഷൻ എന്ന് വിളിക്കപ്പെടുന്ന ഒരു പ്രധാന പദാവലി നിലവിലുണ്ട് അതിനാൽ ഞാൻ അറിയപ്പെടുന്ന ഒരു പാരാമീറ്റർ അളക്കുന്നു അതിനുശേഷം ഞാൻ ഒരു അജ്ഞാത പാരാമീറ്റർ അളക്കുന്നു തുടർന്ന് ഞാൻ അത് പ്ലോട്ട് ചെയ്യാനും ബന്ധം മനസിലാക്കാനും ആ ബന്ധം അളക്കാനും ഉപയോഗിക്കുന്നു അതിനാൽ മർദ്ദ വ്യതിയാനത്തെ നീളം മാറ്റത്തിലേക്ക് വിവർത്തനം ചെയ്യുന്ന ഒരു ഉപകരണം ലെങ്ത് സ്കെയിൽ അല്ലെങ്കിൽ നീള യൂണിറ്റിൽ കാലിബ്രേറ്റ് ചെയ്ത ഒരു സ്റ്റാൻഡേർഡ് സമ്മർദ്ദത്തിലെ മാറ്റം എന്നറിയപ്പെടുന്നതിന് തുല്യമാണിത് അതിനാൽ പ്രഷർ ഗേജിൽ പ്രാഥമിക സിഗ്നൽ മർദ്ദം ഒരു കൺവെർട്ടറിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുകയും ദ്വിതീയ സിഗ്നൽ നീളം ഒരു നിരീക്ഷകന്റെ കണ്ണിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുകയും ചെയ്യുന്നു അതിനാൽ ഇവിടെ ഇത് ഒരു ദ്വിതീയ അളവാണ് നീളത്തിന്റെ അളവിലേക്ക് പരിവർത്തനം ചെയ്യുന്നതിന് അളന്ന അളവിൽ ഒരു പരിവർത്തനം മാത്രമേ ദ്വിതീയ അളക്കലിൽ വേണ്ടിയുള്ളൂ ഇത് ഒരു പ്രഷർ റെഗുലേറ്ററാണ് ഇതിലൂടെ ഒഴുകുന്ന ദ്രാവകം ഉണ്ട് ഇവിടെ നമ്മൾ ചെയ്യുന്നത് മർദ്ദം മാറ്റുന്നതിനായി ഈ നോബ് പ്രവർത്തിപ്പിക്കുക എന്നതാണ് മർദ്ദം അളക്കുകയും നിങ്ങളോട് പറയുകയും ചെയ്യുന്ന പ്രഷർ ഗേജ് ഇതിൽ ഘടിപ്പിച്ചിട്ടുണ്ട് ഇതാണ് ഇൻ ഇതാണ് ഔട്ട് നമ്മൾ ഈ മാറ്റങ്ങളെല്ലാം ചെയ്യുന്നു അതിനാൽ ഈ മാറ്റം ഇവിടെ നീളത്തിലുള്ള മാറ്റമാണ് അതായത് മർദ്ദത്തിലെ മാറ്റം മൂന്നാമത്തെ അളവിൽ രണ്ട് പരിവർത്തനങ്ങൾ ഉൾപ്പെടുന്നു ദ്വിതീയത്തിൽ ഒരു പരിവർത്തനം ഉണ്ട് ഇവിടെ ഇത് രണ്ട് പരിവർത്തനങ്ങളാണ് ഒരു വസ്തുവിന്റെ താപനില തെർമോകപ്പിൾ ഉപയോഗിച്ച് അളക്കുന്നത് ഇതിനുദാഹരണമാണ് ഇവിടെ പ്രാഥമിക സിഗ്നൽ ഒരു ട്രാൻസ്ലേറ്ററിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു അങ്ങനെ ഒരു വോൾട്ടേജ് സൃഷ്ടിക്കപ്പെടുന്നു അത് താപനിലയുടെ പ്രവർത്തനത്താലാണ് അതിനാൽ ആദ്യത്തെ പരിവർത്തനം താപനില മുതൽ വോൾട്ടേജ് വരെയാണ് ഒരു ജോഡി വയറുകളിലൂടെ വോൾട്ട്മീറ്ററിലേക്ക് വോൾട്ടേജ് പ്രയോഗിക്കുന്നു രണ്ടാമത്തെ പരിവർത്തനം വോൾട്ടേജിൽ നിന്ന് നീളത്തിലേക്ക് മൂന്നാമത്തെ പരിവർത്തനം ലെങ്ത് മാറ്റം നിരീക്ഷകന്റെ തലച്ചോറിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു അതിനാൽ ഇവിടെ നിന്ന് രണ്ട് പരിവർത്തനങ്ങൾ ഉണ്ടാകും അപ്പോൾ പ്രാഥമികത്തിൽ നിങ്ങൾ നേരിട്ട് ഡാറ്റ എടുക്കുന്നു ദ്വിതീയത്തിൽ ഒരു പരിവർത്തനം മൂന്നാമത്തേതിൽ അളവ് നേടുന്നതിന് നിങ്ങൾ രണ്ട് പരിവർത്തനങ്ങൾ ചെയ്യുന്നു അതിനാൽ ഇവിടെ മൂന്നാമത്തെ അളവെടുപ്പിൽ നിങ്ങൾക്ക് ഒരു ഒബ്ജക്റ്റ് ഉണ്ടാകും പിന്നീട് ഇത് ഒരു പരിവർത്തനമായിരിക്കും തുടർന്നും നിങ്ങൾക്ക് പരിവർത്തനം ഉണ്ടാകും ശേഷം നിങ്ങൾക്ക് ഔട്ട്പുട്ട് ലഭിക്കും ഇവിടെ നിങ്ങൾ പ്രാഥമിക ഡാറ്റയായ താപനില അളക്കും ഇവിടെ നിങ്ങൾ തെർമോകപ്പിൾ ഉപയോഗിച്ച് പരിവർത്തനം അളക്കാൻ ശ്രമിക്കും ഇത് ദ്വിതീയ ഡാറ്റയാണ് ദ്വിതീയ സിഗ്നൽ ഡാറ്റ പിന്നീട് ഇവിടെ പരിവർത്തനം ചെയ്യുന്നത് വോൾട്ട്മീറ്ററും അവസാനത്തേത് തൃതീയ ഡാറ്റയും ആയിരിക്കും അത് ഇവിടെ ലഭിക്കും അതിനാൽ ഇവിടെ നിങ്ങൾക്ക് വോൾട്ടേജ് ഉണ്ടാകും ഇവിടെ താപനില ഇവിടെ വോൾട്ടേജ് നിങ്ങൾക്ക് ഒരു നീളം ഉണ്ടായിരുന്നു ശരി അതിനാൽ ഇവ അളവെടുക്കാനുള്ള വ്യത്യസ്ത തലങ്ങളാണ് അതിനാൽ നിങ്ങൾക്ക് ഒരു വസ്തുവിന്റെ താപനില അളക്കുന്ന ഒരു പ്രാഥമിക ഡാറ്റ ഉണ്ടാകും അതിനായി തെർമോകപ്പിൾ ഉപയോഗിക്കുന്നു തുടർന്ന് നിങ്ങൾ ചെയ്യുന്നത് ഈ തെർമോകപ്പിൾ ഡാറ്റയെ വോൾട്ടേജ് ഡാറ്റയായി പരിവർത്തനം ചെയ്യുന്നു അതിനാൽ അതിന് വീണ്ടും ഒരു പരിവർത്തനം സംഭവിക്കുന്നു ഒടുവിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് ഒരു നിരീക്ഷകൻ അവന്റെ കണ്ണിലൂടെ നോക്കുന്ന ലെങ്ത് അടിസ്ഥാനത്തിലുള്ള ഡാറ്റയാണ് അതിനാൽ നമുക്ക് ഈ അധ്യായത്തിൽ എന്താണ് കണ്ടത് എന്ന് വീണ്ടും ഒന്ന് ചർച്ച ചെയ്യാം മെക്കാനിക്കൽ അളക്കലിന്റെ അർത്ഥം നമ്മൾ കണ്ടു തുടർന്ന് അളക്കലിന്റെ ആവശ്യകത എന്താണെന്ന് കണ്ടു അളവെടുപ്പിന്റെ ആവശ്യകത ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു നിങ്ങൾക്ക് ഒരു ഉൽപ്പന്നമുണ്ടെങ്കിൽ ആ ഉൽപ്പന്നത്തിന്റെ കാര്യക്ഷമത മെച്ചപ്പെടുത്തേണ്ടതുണ്ട് നിങ്ങൾക്ക് ഒരു പുതിയ ഉൽപ്പന്നം ചെയ്യാൻ താൽപ്പര്യമുണ്ടെങ്കിൽ അളവിലെന്തെങ്കിലും വ്യതിയാനം ഉണ്ടോയെന്ന് മനസിലാക്കാൻ നിങ്ങൾ എല്ലായ്പ്പോഴും ശ്രമിക്കും തുടർന്ന് ഈ വ്യതിയാനം പ്രക്രിയ ശരിയായി തിരഞ്ഞെടുക്കുന്നതിലേക്ക് നിങ്ങളെ നയിക്കും അതിനാൽ മുഴുവൻ പ്രക്രിയയ്ക്കും അളവുകൾ തിരഞ്ഞെടുക്കൽ വളരെ പ്രധാനമാണ് അതിനുശേഷം നമ്മൾ അളവുകൾ തരംതിരിച്ചു തുടർന്ന് നമ്മൾ കണ്ടത് വിവിധ അളവെടുക്കൽ രീതികളാണ് അവസാനമായി അളവുകളുടെ പ്രാഥമിക ദ്വിതീയ തൃതീയ തലങ്ങൾ നമ്മൾ കണ്ടു തുടർന്ന് യഥാർത്ഥ മൂല്യം നേടുന്നതിനായി എങ്ങനെ അത് പരിവർത്തനം ചെയ്യുന്നു എന്ന് കണ്ടു ഉപഭോക്താവിന് വായിക്കാൻ കഴിയുന്ന അന്തിമ ഡാറ്റ നേടാൻ നിങ്ങൾ ശ്രമിക്കുന്നു അതിനാൽ നിങ്ങൾക്കുള്ള ചുമതല എന്താണ് നിങ്ങൾ ഒരു റബ്ബർ ബാൻഡ് ഏതെങ്കിലും റബ്ബർ ബാൻഡ് എടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ അതിന്റെ വ്യാസം അളക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഒപ്പം നീളമുണ്ടെങ്കിൽ നീളവും അളക്കുക ഞാൻ നിങ്ങൾക്ക് പ്രശ്ന പരിമിതികളും തരുമെന്ന് നിങ്ങൾ മനസിലാക്കണം ഇവിടെ പരിമിതി റബ്ബർ ബാൻഡാണ് റബ്ബർ ബാൻഡ് ഇലാസ്റ്റിക് സ്വഭാവത്തിലാണ് അതിനാൽ നിങ്ങൾക്ക് നൽകിയ വെല്ലുവിളി എന്തെന്നാൽ ഒരു റബ്ബർ ബാൻഡ് അളക്കാൻ ശ്രമിക്കണം നിങ്ങൾ അത് ഒരു സ്കെയിലിൽ ഇടാൻ ശ്രമിക്കുമ്പോഴോ നിങ്ങളുടെ കൈയിൽ പിടിക്കാൻ ശ്രമിക്കുമ്പോഴോ അത് നീണ്ട് പോകുന്നു എന്നതാണ് അതിനാൽ അത് വലിയുന്നുവെങ്കിൽ അളക്കുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഏത് ഉപകരണവും ശരിയായിരിക്കില്ല അതിനാൽ ഇപ്പോൾ നിങ്ങൾ ഇത് എങ്ങനെ ചെയ്യുമെന്ന് ചിന്തിക്കുക രണ്ടാമത്തെ കാര്യം നിങ്ങളുടെ ചർമ്മത്തിന്റെ മൃദുലതയെ നിങ്ങൾ എങ്ങനെ കണക്കാക്കും എന്ന് മനസിലാക്കാൻ ശ്രമിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ചർമ്മത്തിന്റെ മൃദുത്വം നിങ്ങൾ എങ്ങനെ അളക്കും ഇത് വളരെ പ്രധാനമാണ് കാരണം നിങ്ങൾക്ക് നേരിട്ട് യൂണിറ്റുകളില്ലാത്ത ഒരു പാരാമീറ്ററാണ് മൃദുത്വം അതിനാൽ മൃദുലത എന്നത് സ്കെയിലുമായി ബന്ധമില്ലാത്തതാണ് അതിനാൽ എനിക്ക് മൃദുവായത് എന്റെ ഭാര്യക്ക് മൃദുവായതല്ല അല്ലെങ്കിൽ അത് എന്റെ മകന് മൃദുവായതല്ല ടിവിയിൽ വരുന്ന ഈ ഡയപ്പർ പരസ്യങ്ങളെല്ലാം കാണുമ്പോൾ അത് വളരെ മൃദുവാണെന്ന് അവർ പറയുന്നു അപ്പോൾ മൃദുത്വത്തിന്റെ അളവ് എന്താണ് അതിനാൽ നിങ്ങൾ അളവുകൾ മനസ്സിലാക്കി വ്യത്യസ്ത അളവുകൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അവ എന്തൊക്കെയാണ് ചർമ്മത്തിന്റെ മൃദുത്വം നിങ്ങൾ എങ്ങനെ അളക്കും എന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ ശ്രമിക്കുക അവസാനത്തെ അസൈൻമെന്റ് നിങ്ങളുടെ കണ്ണ് അളക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ അത് എങ്ങനെ ചെയ്യും അതിനാൽ ഒരു ഉൽപ്പന്നമായി കണ്ണ് എടുക്കുക ഒരു കണ്ണാടിക്ക് മുന്നിൽ നിൽക്കുക നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൾ കാണുന്നു ഇപ്പോൾ ഞാൻ നിങ്ങളുടെ കണ്ണ് അളക്കാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ കണ്ണുകളുടെ പ്രത്യേകതകൾ നൽകുക ഇപ്പോൾ വിദ്യാർത്ഥികളെ നോക്കൂ വെല്ലുവിളി നിറഞ്ഞ എല്ലാ പ്രസ്താവനകളും ഞാൻ നിങ്ങൾക്ക് നൽകി ഈ പ്രശ്ന പ്രസ്താവനകളിലൂടെ നിങ്ങൾക്ക് വിവിധ ഉപകരണങ്ങൾക്കായി ചിന്തിക്കാനും പ്രതീക്ഷിക്കാനും കഴിയുന്നുവെങ്കിൽ ശരി ഞാൻ വളരെ ഉയർന്ന തലത്തിലേക്ക് നോക്കാൻ ആവശ്യപ്പെടുന്നില്ല എന്നാൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ അളക്കാൻ കഴിയുന്ന എന്തെങ്കിലും ഉപകരണങ്ങൾ ഉണ്ടോ എന്ന് നോക്കുക അതിനാൽ ആദ്യത്തേത് വെല്ലുവിളിക്കുന്നത് ഒരു ഇലാസ്റ്റിക് മെറ്റീരിയലാണ് നിങ്ങൾ തൊടുമ്പോൾ അത് ചുരുങ്ങാൻ പോകുന്നു നിങ്ങൾ വലിക്കുന്ന നിമിഷം അത് വികസിക്കാൻ പോകുന്നു അടുത്തത് ചർമ്മത്തിന്റെ മൃദുത്വമായിരിക്കും ശരി അതിനാൽ ചർമ്മത്തിന്റെ മൃദുത്വം നിങ്ങൾക്ക് നിലവിൽ അളക്കാൻ യൂണിറ്റുകളില്ലാത്ത ഒന്നാണ് പിന്നെ ആളുകൾ എങ്ങനെ അളക്കും സ്ക്രീനുകളിൽ വരുന്ന നിങ്ങളുടെ മിക്കവാറും എല്ലാ പരസ്യങ്ങളും മൃദുത്വത്തെക്കുറിച്ച് സംസാരിക്കുന്നു നിങ്ങൾ ലോകം കാണുന്ന കണ്ണാണ് അവസാനത്തേത് ഇപ്പോൾ നിങ്ങൾ അതിന്റെ സവിശേഷതകൾ നൽകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഇതുപയോഗിച്ച് അളക്കൽ എന്താണെന്ന് മനസിലാക്കാൻ നിങ്ങൾ ശ്രമിക്കുക അതുപോലെ അളക്കൽ എത്ര സങ്കീർണ്ണമാണ് എന്നും മനസിലാക്കുക പിന്നീട് കോഴ്സിൽ അളവെടുപ്പിനായി ഉപയോഗിക്കുന്ന നിരവധി ഉപകരണങ്ങൾ നിങ്ങൾക്ക് കണ്ട് ആസ്വദിക്കാം എല്ലാവർക്കും വളരെയധികം നന്ദി